അതിനാൽ ആദ്യ തിരയൽ ഉപയോഗിച്ച് കണക്റ്റിവിറ്റി എങ്ങനെ പര്യവേക്ഷണം ചെയ്യാമെന്ന് ഞങ്ങൾ കണ്ടു അതിനാൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച്എന്ന് പൊതുവായി ഉപയോഗിക്കുന്ന മറ്റ് തന്ത്രം നോക്കാം അതിനാൽ എല്ലാ വെർട്ടീസുകളും ലെവൽ അനുസരിച്ച് പര്യവേക്ഷണം ചെയ്യുന്നതിനുപകരം ആഴത്തിലുള്ള ആദ്യ തിരയൽ ഓരോ തവണയും ഞങ്ങൾ ഒരു പുതിയ ശീർഷകം പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഞങ്ങൾ അത് ഉടനടി പര്യവേക്ഷണം ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഇപ്പോൾ വെർട്ടെക്സ് i ആരംഭിച്ച് ഇതുവരെ പര്യവേക്ഷണം ചെയ്യാത്ത ആദ്യ അയൽക്കാരനായ j സന്ദർശിക്കുന്നു എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുകയും പകരം j പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒന്നും ചെയ്യാനാകാത്തതുവരെ നിങ്ങൾ ഇത് ചെയ്യുന്നത് തുടരുക അതിനാൽ പര്യവേക്ഷണം ചെയ്യാൻ പുതിയതായി ഒന്നുമില്ലാത്തപ്പോൾ നിങ്ങൾ കുടുങ്ങുമ്പോൾ നിങ്ങൾ പിന്നോട്ട് നടക്കുക കാരണം നിങ്ങൾ നേരത്തെ പര്യവേക്ഷണം ചെയ്യാത്ത ചില വെർട്ടീസുകൾ ഇതിനകം ഉപേക്ഷിച്ചു കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ അടുത്തടുത്തുള്ള സസ്പെൻഡ് വെർടെക്സിലേക്ക് മടങ്ങുന്നു അത്തരം ഒരു പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത അയൽക്കാർ ഉണ്ട് തുടർന്ന് ആ വെർടെക്സിന്റെ അടുത്ത പര്യവേക്ഷണം ചെയ്യാത്ത അയൽക്കാരനെ നിങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു അതിനാൽ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന എല്ലാ ലംബങ്ങളും ഇപ്പോൾ ഒരു സ്റ്റാക്കിലാണ് അതിനാൽ നിങ്ങൾ ഗ്രാഫിലേക്ക് കൂടുതൽ ആഴത്തിലും ആഴത്തിലും പോകുമ്പോൾ സ്റ്റാക്കുചെയ്യാൻ നിങ്ങൾ പടുത്തുയർത്തുന്നു തുടർന്ന് നിങ്ങൾക്ക് ഒരു നിർജ്ജീവമായ അറ്റത്ത് സ്റ്റാക്ക് ലഭിക്കുമ്പോഴെല്ലാം മുകളിലേക്ക് നടക്കുക നിങ്ങൾ സ്റ്റാക്കിൽ നേരത്തെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു അതിനാൽ മുമ്പത്തെപ്പോലെ ഞങ്ങളുടെ ഗ്രാഫിൽ ഈ അൽഗോരിതം കൈകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാം ഞങ്ങൾ കപട കോഡ് എഴുതുന്നതിനുമുമ്പ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ കാണും അതിനാൽ ഈ സമയം ഞങ്ങൾ 4 ന് ആരംഭിക്കുന്നു അതിനാൽ സന്ദർശിച്ചതുപോലെ 4 അടയാളപ്പെടുത്തുക എന്നതാണ് ആദ്യപടി അതിനാൽ സന്ദർശിച്ചതുപോലെ ഞങ്ങൾ മാർക്ക് 4 നക്ഷത്രമിടുന്നു കൂടാതെ അയൽക്കാർ 1 3 5 6 എന്നിവയ്ക്ക് മുമ്പായി ഇതിന് 3 അയൽക്കാർ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ ഞങ്ങൾ 1 എന്ന് ആരംഭിക്കുന്ന ഒരു ഓർഡർ എടുക്കുക 1 സന്ദർശിച്ചിട്ടില്ല അതിനാൽ ഞങ്ങൾ ഇത് സന്ദർശിച്ചതായി അടയാളപ്പെടുത്തുന്നു 4 ന്റെ execution താൽക്കാലികമായി നിർത്തിവച്ചതായി ഞങ്ങൾ 4 സ്റ്റാക്കിൽ ഇട്ടു കാരണം ഇപ്പോൾ ഞങ്ങൾ ഘട്ടം 1 പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ 1 ലേക്ക് പോകുന്നു അതിനുശേഷം 1 ന് അയൽക്കാർ 2 3 4 എന്നിവ ആദ്യത്തേതിൽ 2 ആണെന്ന് കാണാം അതിനാൽ സ്റ്റാക്കിൽ 2 കഴിയുമെങ്കിൽ അത് 2 ആകാൻ കഴിയാത്തതിനാൽ പരാമർശം 2 സന്ദർശിക്കുന്നു അതിനാൽ നിങ്ങൾ നേരത്തെ സന്ദർശിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ 1 സ്റ്റാക്കിൽ ഇടുന്നു ഇപ്പോൾ ഞങ്ങൾ 1 സസ്പെൻഡ് ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങൾ 2 ന്റെ അയൽവാസികളിലേക്ക് നോക്കുന്നു അതിനാൽ 2 ന്റെ അയൽക്കാർ 1 ഉം 3 ഉം ആണ് 1 ഇതിനകം സന്ദർശിച്ചു 3 ഇല്ല അതിനാൽ ഞങ്ങൾ ഇപ്പോൾ സന്ദർശിച്ചതായി 3 എന്ന് അടയാളപ്പെടുത്തുകയും 2 താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്യും ഇപ്പോൾ ഞങ്ങൾ 3 ലേക്ക് വരുമ്പോൾ അതിൽ 2 അയൽക്കാർ 1 ഉം 2 ഉം ഉണ്ട് എന്നാൽ രണ്ടും ഇതിനകം സന്ദർശിച്ചു അതിനാൽ ആകാൻ ഒന്നുമില്ല അതിനാൽ നമ്മൾ പോകണം ഞങ്ങൾ 2 എന്ന് താൽക്കാലികമായി നിർത്തിവച്ച അവസാന ശീർഷകത്തിലേക്ക് മടങ്ങുകയും അത് അയൽവാസികളാണെന്ന് പര്യവേക്ഷണം ചെയ്യുകയും വേണം 2 ലേക്ക് മടങ്ങുന്നതിന് അതിനാൽ 1 ചെയ്യേണ്ടതില്ലെന്ന് ഞങ്ങൾ ഇതിനകം പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾ ഇതിനകം 3 പ്രോസസ്സ് ചെയ്തു അതിനാൽ ഞങ്ങൾ 4 നോക്കേണ്ടതുണ്ട് എന്നാൽ 4 ഉം ഇതിനകം സന്ദർശിച്ചു അതിനാൽ ഞാൻ 2 ഉപയോഗിച്ച് ചെയ്തു അതിനാൽ ഇപ്പോൾ ഞങ്ങൾ തിരികെ പോയി സ്റ്റാക്കിലെ അടുത്ത ശീർഷകം 1 ആയി അവശേഷിക്കുന്ന സ്റ്റോറിലേക്ക് പോകണം ഇപ്പോൾ നമ്മൾ 1 ലേക്ക് മടങ്ങുന്നു 1 ൽ നിന്ന് ഞങ്ങൾ ഇതിനകം സന്ദർശിച്ചതായി കണ്ടെത്തുന്നു 1 1 ലേക്ക് ഞങ്ങൾ സന്ദർശിച്ചിട്ടില്ലാത്ത 2 3 സന്ദർശിച്ചത് ഇതുവരെയുള്ള അടയാളപ്പെടുത്തലിലൂടെയാണ് 4 മുതൽ 1 വരെ ഞങ്ങൾ എത്തി അതിനാൽ ഇത് ചെയ്തു അതിനാൽ 1 ഉപയോഗശൂന്യമാണ് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ തിരികെ പോയി 4 ൽ ആരംഭിച്ച ആദ്യത്തെ ശീർഷകത്തിലേക്ക് മടങ്ങുകയും കാണുക ഇനിയും എന്തെങ്കിലും ചെയ്യാനുണ്ട് അതിനാൽ 4 ലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പര്യവേക്ഷണം 1 എന്നതിനപ്പുറം ഇതിന് കൂടുതൽ അയൽക്കാർ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി അതിനാൽ ഇപ്പോൾ ഞങ്ങൾ തുടരുന്നു സമയം കാണുക 0318 5 6 8 എന്നിവ അതിനാൽ ഞങ്ങൾ 5 എടുക്കുകയും സന്ദർശിച്ചിട്ടില്ലെന്ന് കാണുകയും ചെയ്യുന്നു ഞങ്ങൾ 5 അടയാളപ്പെടുത്തുന്നു സമയം കാണുക 0327 കാണുക വീണ്ടും സസ്പെൻഡ് ചെയ്യുക 5 അതിനാൽ 5 ൽ നിന്ന് ഇപ്പോൾ നമുക്ക് 4 6 7 ഉണ്ട് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ 6 എടുത്ത് 5 സസ്പെൻഡ് ചെയ്യും 6 മുതൽ ഞങ്ങൾക്ക് 7 5 7 8 എന്നിവയുണ്ട് 5 ഇതിനകം ചെയ്തു പക്ഷേ 7 ചെയ്തിട്ടില്ല അതിനാൽ ഞങ്ങൾ 7 എടുത്ത് 6 സസ്പെൻഡ് ചെയ്യും ഇപ്പോൾ 7 ൽ നിന്ന് ഇതിന് 5 ഉം 6 ഉം അയൽവാസികളുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി ഇവ രണ്ടും ഇതിനകം അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ 7 ആണ് സമയം കാണുക 0356 അതിനാൽ ഞങ്ങൾ തിരിച്ചുവന്ന് 6 നോക്കുക ചെയ്യേണ്ട ഏതൊരു നീക്കവും കാണുക അവിടെ ഒരു 8 ഉണ്ട് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ 8 ചേർക്കുന്നു വീണ്ടും 8 താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നു ഇപ്പോൾ നമ്മൾ 8 വയസിലാണ് ഇപ്പോൾ നമ്മൾ 8 ൽ നിന്ന് എന്താണ് പര്യവേക്ഷണം ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കുക 8 4 ൽ നിന്ന് ഇതിനകം ചെയ്തു 4 6 9 എന്നിവയുണ്ട് അതിനാൽ 4 ഇതിനകം ചെയ്തു 6 ഇതിനകം ചെയ്തു പക്ഷേ 9 ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ 9 ചേർത്ത് 8 താൽക്കാലികമായി നിർത്തുന്നു തുടർന്ന് ഞങ്ങൾ 9 ലേക്ക് നീങ്ങുന്നു അതിനാൽ 9 ൽ നിന്ന് ഇതിന് ഒരു പുതിയ അയൽക്കാരൻ 10 ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ഞങ്ങൾ 10 ചേർക്കുകയും പിന്നീട് പൂർത്തിയാക്കുകയും ചെയ്യുന്നു കാരണം 10 ന് ഒന്നും ചെയ്യാനില്ല അതിനാൽ ഞങ്ങൾ തിരികെ പോയി 9 പ്രോസസ്സ് ചെയ്യുന്നു 9 ന് പുതിയതായി ഒന്നും പറയാനില്ല കാരണം 9 മറ്റ് അയൽവാസികളായ ഞങ്ങൾ 6 ഉം 8 ഉം ഇതിനകം തന്നെ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ 8 ലേക്ക് മടങ്ങുക 8 ന് 6 ലേക്ക് തിരികെ പോകുമെന്ന് പറയാൻ കൂടുതലൊന്നുമില്ല 6 ന് കൂടുതലൊന്നും പറയാനില്ല 5 മുതൽ 5 വരെ 5 ലേക്ക് കൂടുതലൊന്നും പറയാനില്ല ഇപ്പോൾ ഞങ്ങൾ ഈ കാലഹരണപ്പെടൽ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് 4 മുതൽ 5 വരെ ലഭിക്കും അതിനാൽ ഇപ്പോൾ ഞങ്ങൾ നോക്കുകയും 4 മുതൽ 6 വരെ പൂർത്തിയായിക്കഴിഞ്ഞു ഇത് 2 മുതൽ 6 വരെ മതി 4 മുതൽ 8 വരെ ഇതിനകം ചെയ്തു അതിനാൽ ഇത് 4 ൽ നിന്ന് കൂടുതലായി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ ഈ കാലഹരണപ്പെടൽ പൂർത്തിയായി അതിനാൽ ഞങ്ങൾ ഒരു സ്റ്റാക്ക് ഉപയോഗിച്ച് വ്യക്തമായി ചെയ്തത് കൂടുതൽ ബുദ്ധിപൂർവ്വം ചെയ്യാൻ കഴിയും ഞങ്ങൾ ആവർത്തിച്ചുള്ളത് നടപ്പിലാക്കി അതിനാൽ ഞങ്ങൾ ഒരു പുതിയ ശീർഷകം j സന്ദർശിക്കുമ്പോൾ j യുടെ DFS നെ സസ്പെൻഡ് ചെയ്ത DFS എന്ന് വിളിക്കുന്നു നിലവിലെ ശീർഷകം i അതിനാൽ ഞങ്ങൾ അനുകരിക്കുന്ന ഈ സ്റ്റാക്ക് ഞങ്ങൾ വ്യക്തമായി പരിപാലിക്കുന്നില്ല കാരണം ഇത് ആവർത്തന ഫംഗ്ഷൻ കോളുകൾ വഴി വ്യക്തമായി പരിപാലിക്കും അതിനാൽ നടപ്പിലാക്കുന്നതിനുള്ള വളരെ ലളിതമായ അൽഗോരിതം ആണ് ഡിഎഫ്എസ് അതിനാൽ സന്ദർശിച്ച ഓരോ ശീർഷകത്തിനും 0 ആണെന്ന് തുടക്കത്തിൽ ഞങ്ങൾ പറയുന്നു കൂടാതെ ഡിഎഫ്എസ് വീതിയുടെ ആദ്യ തിരയലിലെന്നപോലെ ഓർക്കുക ഞങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ എല്ലാം അവിടെ നിർവചിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയും ഇപ്പോൾ ഞങ്ങൾ ആരംഭ ശീർഷകത്തിന്റെ DFS എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ശീർഷകത്തിൽ നിന്ന് ഞങ്ങൾ DFS നെ വിളിക്കുമ്പോൾ അത് സന്ദർശിച്ചതായി ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു അതിനാൽ ഇത് അടയാളപ്പെടുത്തുന്നതിനായി ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് സന്ദർശിക്കുകയാണ് ഇപ്പോൾ കണക്റ്റുചെയ്തിരിക്കുന്ന മറ്റെല്ലാ ശീർഷകങ്ങൾക്കും ഞങ്ങൾ സാധാരണ ചിന്തിക്കുന്നു ഞങ്ങൾ ഇതിനകം സന്ദർശിച്ച ആ ശീർഷകം ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു അത് സന്ദർശിച്ചില്ലെങ്കിൽ ഞങ്ങൾ അത് സന്ദർശിക്കണം അതിനാൽ ഞങ്ങൾ എങ്ങനെ സന്ദർശിച്ചുവെന്നത് അതിന്റെ രക്ഷകർത്താവ് ഞാൻ ആണെന്ന് അടയാളപ്പെടുത്തും തുടർന്ന് ഞങ്ങൾ ഈ DFS താൽക്കാലികമായി നിർത്തി DFS എന്ന് വിളിക്കുന്നു അതിനാൽ ഇതാണ് ഞങ്ങൾ ഒരു സ്റ്റാക്ക് ഉപയോഗിച്ച് സ്പഷ്ടമായി ചെയ്യുന്നത് പക്ഷേ ആവർത്തനം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ ഡിഎഫ്എസ് വളരെ ലളിതമായ ഒരു ആവർത്തന അൽഗോരിതം ആണ് ഞാൻ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ഓരോ അയൽക്കാരെയും നോക്കിയാണ് ആരംഭിക്കുന്നത് കൂടാതെ ഡിഎഫ്എസ് അത് പര്യവേക്ഷണം ചെയ്യാത്തവയിൽ ആവർത്തിക്കുകയും ചെയ്യും അതിനാൽ ആഴത്തിലുള്ള ആദ്യ തിരയലിന്റെ സങ്കീർണ്ണത എന്താണ് ശരി ഓരോ ശീർഷകവും കൃത്യമായി അടയാളപ്പെടുത്തി പര്യവേക്ഷണം ചെയ്യുന്നു അതിനാൽ ഓരോ j യ്ക്കും ഒരിക്കൽ ഞങ്ങൾ j യുടെ DFS ചെയ്യുന്നു അതിനാൽ ഇവ ഓർഡർ n ആണ് എല്ലാം ഒരു വരിയിൽ എത്തിയാൽ യഥാർത്ഥത്തിൽ n വിളിക്കുന്നു ഇപ്പോൾ ഒരു പ്രത്യേക j യ്ക്കായി j യുടെ DFS എന്ന് വിളിക്കുമ്പോൾ j യുടെ എല്ലാ അയൽവാസികളെയും പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് സമീപം മാട്രിക്സ് ഉണ്ടെങ്കിൽ മുമ്പ് കണ്ടതുപോലെ അതിനർത്ഥം നമ്മൾ j വരി നോക്കണം കൂടാതെ ഈ വരിയിലെ എല്ലാ എൻട്രികളും നോക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഓർഡർ n സമയം എടുക്കും അതിനാൽ ഞങ്ങൾക്ക് ഓർഡർ n കോളുകൾ ഉണ്ട് ഓരോ കോളും ഓർഡർ n തവണ എടുക്കുന്നു അതിനാൽ എല്ലാറ്റിനുമുപരിയായി നമുക്ക് ഓർഡർ n സ്ക്വയർ ടൈം ഉണ്ട് മറുവശത്ത് നിങ്ങൾ ഉപയോഗിക്കുകയും സമീപസ്ഥല പട്ടികയും ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജെ യുടെ അയൽക്കാരെ നോക്കുമ്പോൾ ഞങ്ങൾ കണക്റ്റുചെയ്തിരിക്കുന്ന കൃത്യമായ വെർട്ടീസുകൾ മാത്രമേ കാണേണ്ടതുള്ളൂ ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ കോളുകളിലുടനീളം കണക്കാക്കിയാൽ ഓരോ അരികും കണക്കാക്കപ്പെടും രണ്ടുതവണ ഒരു തവണ i മുതൽ j വരെയും ഒരു തവണ j മുതൽ i വരെയും അതിനാൽ കോളുകളുടെ ആകെ എണ്ണം അയൽക്കാരെ സ്കാൻ ചെയ്യുന്നതിനുള്ള ആകെ ഘട്ടങ്ങളുടെ എണ്ണം ഞങ്ങൾ അരികുകളുടെ എണ്ണത്തിന്റെ ക്രമം ആയിരിക്കും അതിനാൽ മൊത്തത്തിലുള്ള സമയം വീതിയേറിയ ആദ്യ തിരയൽ പോലെ രേഖീയ m പ്ലസ് n ആയിരിക്കും അതിനാൽ ഞങ്ങൾ സമീപസ്ഥല ലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡെപ്ത് ആദ്യ തിരയലും വീതിയുടെ ആദ്യ തിരയലും ഇൻപുട്ടിന്റെ വലുപ്പത്തിൽ രേഖീയമാണ് അതിനാൽ ഡെപ്ത് ഫസ്റ്റ് തിരയലും വീതി ആദ്യ തിരയലും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ആദ്യത്തെ തിരയൽ വീതി കണ്ടെത്തുന്ന പാതകൾ ഹ്രസ്വമായ പാതകളല്ല എന്നതാണ് അതിനാൽ ഇതുപോലുള്ള ഒരു ത്രികോണത്തിന് മുമ്പ് കണ്ട ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ നമുക്ക് 1 2 3 ഉണ്ടാകും 1 2 3 ൽ നിന്ന് 2 വഴി പോകുന്ന ഒരു പാത കണ്ടെത്തുന്നതിന് ആദ്യ ഡെപ്ത് ഏത് ഡെപ്ത് ചെയ്യും ഈ ചെറിയ അയൽക്കാരനെ ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് പര്യവേക്ഷണം ചെയ്യേണ്ട സമയമാണ് അതിനാൽ യഥാർത്ഥത്തിൽ 1 3 ഭാഗത്തേക്ക് വരുമ്പോൾ 3 ഇതിനകം സന്ദർശിച്ചതായി ഞാൻ കണ്ടെത്തും അതിനാൽ ആഴത്തിലുള്ള ആദ്യ തിരയൽ വളരെ ഉപകാരപ്രദമായ ഒന്നിനുമിടയിലായിരിക്കില്ലെന്ന് തോന്നുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആവർത്തന പര്യവേക്ഷണം ധാരാളം വിവരങ്ങൾ നൽകുന്നു അതിനാൽ ഗ്രാഫിനെക്കുറിച്ചുള്ള ഉപയോഗപ്രദമായ നിരവധി സവിശേഷതകൾ യഥാർത്ഥത്തിൽ റെക്കോർഡുചെയ്യാൻ കഴിയും ഇത് ഡി അതിനാൽ ഇതിനായി ഞങ്ങൾ DFS വാദിക്കുന്നു ഞങ്ങൾ നമ്പറിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ശീർഷകത്തിൽ പ്രവേശിക്കുമ്പോഴെല്ലാം ഡിഎഫ്എസ് ഒരു ശീർഷകത്തിൽ ആരംഭിക്കുമ്പോഴും അത് കുതിക്കുമ്പോഴും ഞങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു ക counter ണ്ടർ ഞങ്ങൾ നിലനിർത്തുന്നു അതിനാൽ ഗ്രാഫ് 2 മൂല്യങ്ങളിലെ ഓരോ ശീർഷകവുമായും ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ ആദ്യമായി j യുടെ DFS ചെയ്യുമ്പോൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക counter ണ്ടറിന്റെ മൂല്യം j യുടെ DFS എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ക counter ണ്ടറിന്റെ മൂല്യം തിനാൽ ഞങ്ങളുടെ അൽഗോരിതത്തിൽ ഇത് ഞങ്ങൾ എങ്ങനെ ചെയ്യും അതിനാൽ ഈ ക counter ണ്ടർ 0 ലേക്ക് സമാരംഭിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഇപ്പോൾ ഞാൻ i യുടെ DFS അഭ്യർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ആദ്യം ചെയ്യുന്നത് നിലവിലെ ക counter ണ്ടർ മൂല്യം i യുടെ 3 നമ്പറിലേക്ക് വിളിക്കുക എന്നതാണ് അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ക counter ണ്ടറിന്റെ എണ്ണമാണിത് തുടർന്ന് ഞാൻ എണ്ണം വർദ്ധിപ്പിക്കും അതുപോലെ ഞാൻ പുറത്തുകടക്കാൻ പോകുമ്പോൾ ഞാൻ പോസ്റ്റിനെ എണ്ണുന്നതിന് തുല്യമായി അടയാളപ്പെടുത്തുകയും വീണ്ടും എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ ഇതിനിടയിൽ ധാരാളം ആവർത്തന കോൾ ഓർമ്മിക്കുക അതിനാൽ ഈ പോയിന്റ് ഞാൻ വർദ്ധിപ്പിച്ച എണ്ണത്തിന്റെ തുല്യത്തിലേക്ക് പോകുന്നില്ല അതിനിടയിൽ വളരെയധികം സംഭവിക്കുന്നു റഫർ സമയം 0938 ഇതിനിടയിൽ സംഭവിക്കുന്നു മാത്രമല്ല ഇത് ഈ 2 അക്കങ്ങൾക്ക് മുമ്പുള്ള ക്രമത്തെ സൂചിപ്പിക്കുന്നു ഞാനും പോസ്റ്റുചെയ്യുന്നു നിങ്ങൾ വെർട്ടീസുകളിൽ ഉടനീളം എനിക്ക് ധാരാളം വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ മുമ്പ് ചെയ്ത ഈ ഉദാഹരണം നോക്കാം അതിനാൽ ഞങ്ങൾ 4 ന് ആരംഭിക്കുന്നതിനു മുമ്പുള്ളതുപോലെ കരുതുക അതിനാൽ അതിന്റെ പ്രീ നമ്പർ 0 എന്ന് ഞങ്ങൾ പറയും കാരണം അവിടെ ആരംഭിച്ച് ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും പിന്നീട് 1 ലേക്ക് പോകുകയും ചെയ്യും അതിനാൽ ഞങ്ങൾ 1 നൽകുമ്പോൾ സംഖ്യയാണ് എണ്ണം is 1 അതിനാൽ അതിന്റെ പ്രീ നമ്പർ 1 ആണ് തുടർന്ന് നമ്മൾ 2 ലേക്ക് പോകുന്നു അതിന്റെ പ്രീ നമ്പർ 2 ആണ് അതിനുശേഷം ഞങ്ങൾ 3 ലേക്ക് പോകുന്നു അതായത് പ്രീ നമ്പർ 3 ആണ് തുടർന്ന് 3 ആണെങ്കിൽ ഉടൻ തന്നെ കാരണം ഞങ്ങൾക്ക് പുറത്തുകടക്കാൻ പുതിയ അയൽക്കാരില്ല അതിനാൽ ഇത് പോസ്റ്റ് നമ്പർ ഇപ്പോൾ 4 ആണ് അതിനാൽ ഞാൻ പ്രീ നമ്പറിനും ചുവടെയുള്ള പോസ്റ്റ് നമ്പറിനും എഴുതുന്നു ഞാൻ 2 ലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇത് കൂടുതലായി ഒന്നും ചെയ്യാനില്ലെന്ന് ഞാൻ കണ്ടെത്തി ഇത് ഇരട്ടകളിൽ നിന്ന് പുറത്തുകടക്കുന്നു അതിനാൽ അതിന്റെ പോസ്റ്റ് നമ്പർ 5 ആയി മാറുന്നു അതിനാൽ ഇവിടെ ഞാൻ സ്റ്റെപ്പ് 2 ലും ഇടത് സ്റ്റെപ്പ് 5 ലും ഇടയ്ക്കിടെ 3 ഉം 4 ഉം മറ്റെവിടെയെങ്കിലും ചെയ്തുവെന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഞാൻ 1 ലേക്ക് മടങ്ങിവരുന്നു എനിക്ക് ഇതിന് പുതിയതായി ഒന്നും പറയാനില്ല അതിനാൽ ഇപ്പോൾ ഞാൻ 6 ആം ഘട്ടത്തിൽ 1 വിടുന്നു തുടർന്ന് ഞാൻ 4 ലേക്ക് മടങ്ങുന്നു പക്ഷേ ഞാൻ 4 ലേക്ക് പൂർത്തിയാക്കുന്നില്ല കാരണം എനിക്ക് 5 ചെയ്യാൻ കഴിയും അതിനാൽ ഞാൻ 7 ആം ഘട്ടത്തിൽ 5 ൽ പ്രവേശിക്കുന്നു 5 ൽ നിന്ന് 6 ാം ഘട്ടത്തിലേക്ക് 6 ൽ പ്രവേശിക്കുന്നു 6 ൽ നിന്ന് 9 ആം ഘട്ടത്തിൽ 7 ൽ പ്രവേശിക്കുന്നു ഇപ്പോൾ 7 ൽ നിന്ന് എനിക്ക് മറ്റെവിടെയും പോകാൻ കഴിയില്ല അതിനാൽ ഞാൻ 7 കുതിച്ചുചാട്ടുന്നു 6 ൽ ഞാൻ മടങ്ങുന്നു 6 ഞാൻ കൂടുതൽ നോക്കുമ്പോൾ ഞാൻ 8 കണ്ടെത്തി അതിനാൽ ആ സമയത്ത് ഞാൻ ഒരു 10 ആയിരുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ 8 സ്റ്റെപ്പ് 11 ൽ പ്രവേശിക്കുന്നു 8 ൽ നിന്ന് ഞാൻ സ്റ്റെപ്പ് 12 ൽ 9 ൽ നിന്ന് ഞാൻ സ്റ്റെപ്പ് 10 ൽ 13 ആം ഘട്ടത്തിൽ പ്രവേശിക്കുന്നു ഞാൻ 10 ഇലയും 9 ഉം 15 ന് പുറപ്പെടുമ്പോൾ ഞാൻ 16 ന് 8 ഉം 7 ഉം ഉപേക്ഷിക്കുന്നു ഞാൻ 5 ന് 18 ന് പുറപ്പെടും ഞാൻ 4 ലേക്ക് മടങ്ങിവരുന്നു ഒടുവിൽ ഞാൻ പൂർത്തിയാക്കി നന്ദി അതിനാൽ ഓരോന്നിനും ഓരോ നോഡിനും ഇപ്പോൾ 3 മൂല്യത്തിന്റെ 2 മൂല്യങ്ങളും 4 ഘട്ടങ്ങളുമുണ്ട് അതിനാൽ ഞാൻ പ്രീ മൂല്യവും ഒരു പോസ്റ്റ് മൂല്യവും ആയിരിക്കും ഇത് മാറുന്നു ഈ പ്രീ പോസ്റ്റ് മൂല്യം വളരെ സഹായകരമാകും അതിനാൽ ഗ്രാഫുകൾ സൈക്കിൾ ആണോ എന്ന് ചിന്തിക്കുന്നത് നമുക്ക് കണ്ടെത്താനാകും അതിനാൽ ഇതൊരു ചക്രമാണ് അതിനാൽ ഒരു ഗ്രാഫിന് ഇതുപോലുള്ള ഒരു ലൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ കാണാൻ പോകുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താനാകും അതിനാൽ ഇതാണ് പ്രത്യേക ശീർഷകം കാരണം ഗ്രാഫിൽ നിന്ന് ഞാൻ ഈ 4 നീക്കംചെയ്യുകയാണെങ്കിൽ നേരത്തെ കണക്റ്റുചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എത്തിച്ചേരുന്നതിന് മുമ്പ് എല്ലാം ബന്ധിപ്പിച്ച ഗ്രാഫിൽ അതിനാൽ 1 2 3 ൽ നിന്ന് ഇതിലേക്ക് പോകാൻ ഇപ്പോൾ ഒരു വഴിയുമില്ല അതിനാൽ അവ അത്തരം കട്ട് വെർട്ടീസുകളാണോ അതിനാൽ ഈ ഡിഎഫ്എസ് നമ്പറുകൾ ഉപയോഗിച്ച് കണക്കുകൂട്ടാൻ കഴിയുന്ന വിവിധ കാര്യങ്ങളാണിവ പിന്നീടുള്ള പ്രഭാഷണങ്ങളിലെ കണക്കുകൂട്ടലുകളിൽ നിന്നും ഇവയിൽ ചിലത് ഞങ്ങൾ കാണും പക്ഷേ ഇത് ഡിഎഫ്എസിനെ യഥാർത്ഥത്തിൽ കൂടുതൽ ഉപയോഗപ്രദമായ പര്യവേക്ഷണ തന്ത്രമാക്കി മാറ്റുന്നു ആദ്യ തിരയൽ ബിഎഫ്എസ് ഞങ്ങൾക്ക് ഹ്രസ്വമായ പാതകൾ നൽകുന്നു എന്നാൽ മറുവശത്ത് ഡിഎഫ്എസ് ഈ ആവർത്തന പര്യവേക്ഷണത്തിൽ വ്യക്തമായി മറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ ഒരു സമ്പത്ത് നൽകുന്നു അത് ഗ്രാഫിന്റെ വിവിധ ഘടനാപരമായ സവിശേഷതകൾ സ free ജന്യമായി കണ്ടെത്തുന്നതിന് പൊട്ടിത്തെറിക്കും DFS ചെയ്യുന്നു ഇതിനെക്കുറിച്ച് രസകരമായ നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും